ഐഐടി കാൺപൂരിലെ എൻപിറ്റെൽ മൂക്ക് നിന്ന് സോഫ്റ്റ് സ്കിൽസും പേഴ്സണാലിറ്റി കോഴ്സും വികസിപ്പിക്കുന്നതിലേക്ക് സ്വാഗതം മൂന്നാമത്തെ ആഴ്ചയിലെ ആദ്യ മൂന്ന് ആഴ്ചകൾ ഞാൻ രവിചന്ദ്രനാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത് ആഴ്ചയിൽ ഞാൻ ശീലമായ പുതിയ വിഷയം അവതരിപ്പിച്ചു തുടർന്ന് ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നമ്മുടെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിലും ഈ ശീലം നോക്കുക കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ രണ്ട് കഥകൾ ചർച്ച ചെയ്തു പക്ഷേ നിങ്ങൾ രണ്ട് പ്രധാന കാര്യങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വികസിപ്പിച്ച ശീലങ്ങളുടെ വശങ്ങൾ ആദ്യത്തേത് ആ ഡോക്ടറെയും രോഗിയെയും കുറിച്ചാണ് അതിൽ ഡോക്ടറാണ് യഥാർത്ഥത്തിൽ പുകവലി ശീലം ആരംഭിച്ചത് രോഗിയുടെയും രോഗിയുടെയും കാര്യത്തിൽ അത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അവൻ ഒരു ഡോക്ടർ ചികിത്സയ്ക്കായി വന്ന കാൻസർ രോഗിക്ക് ഇത് വളരെ വിരോധാഭാസമായിരുന്നു ആദ്യം നല്ല ശീലങ്ങളും മോശം ശീലങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ സമപ്രായക്കാർ രൂപപ്പെടുത്തുകയോ ചെയ്തു ചില സമയങ്ങളിൽ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ ചിലപ്പോൾ മാതാപിതാക്കൾ പോലും നമ്മുടെ സുഹൃത്തുക്കളാണ് അടുത്ത കഥയിൽ ഞാൻ പറയുന്നതുപോലെ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു അത് അവിടെ സ്വാധീനവും നല്ല ശീലങ്ങളും ശീലങ്ങളും രൂപപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പരിസ്ഥിതിക്കായി വരുന്ന കാര്യങ്ങൾക്കായി എന്നാൽ ഒരു നല്ല ശീലം നിലനിർത്തുന്നതിനോ മാറ്റുന്നതിനോ ഉള്ള വ്യക്തിഗത ധാരണയെയും വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു മോശം ശീലമായതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ചില ശീലങ്ങൾ രൂപപ്പെട്ടിരിക്കാം എന്നാണ് ഇതിനർത്ഥം നിങ്ങൾ വന്ന ചുറ്റുപാടുകൾക്കായി എന്നാൽ അത് പൂർണ്ണമായും മുകളിലാണ് നിങ്ങൾക്കുള്ള അകത്തെ അങ്കി അത് തന്നെയാണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കഥയിൽ സമാനമായ എന്തെങ്കിലും സംഭവിക്കുന്നത് തുടരുകയോ ചെയ്യുന്നു മകനെ വളരെയധികം സ്നേഹിച്ച അമ്മയെക്കുറിച്ച് സംസാരിക്കുക ഇപ്പോൾ മകൻ തൻറെ മരണസമയത്ത് അമ്മയെ കാണാൻ ചൂടുപിടിച്ചത് ഒരേയൊരു കാരണത്താൽ മകന്റെ ധാരണയിൽ ഉത്തരവാദിത്തം വഹിച്ചത് അമ്മയാണ് അവൾ ആരംഭിക്കാൻ അനുവദിച്ചു മോഷ്ടിക്കുന്ന ഒരു ചെറിയ ശീലം ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിൽ അവസാനിച്ചു അവന് ഈ വധശിക്ഷ നൽകപ്പെട്ടു ഇപ്പോൾ ഇവിടെ അമ്മയാണ് ഉത്തരവാദികൾ മകനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തവിധം അവൾ അവനെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നതാണ് അവളുടെ ധാരണ അവൾ അവനെ വിമർശിക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ പറയുകയോ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ അത്തരമൊരു രൂപീകരണത്തിൽ കലാശിച്ചു മോഷണത്തിൽ നിന്ന് ആരംഭിക്കുന്ന മോശം ശീലം ആരെയെങ്കിലും വെടിവച്ച് കൊല്ലുകയും തുടർന്ന് അതിൻറെ ഫലമായി മാറുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം മരണത്തിൽ ഇപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ഈ പോയിന്റിൽ പിച്ച് ചെയ്തു മോശം ശീലങ്ങൾ ഉണ്ടാക്കുകയോ അപകടകരവും അങ്ങേയറ്റം ദോഷകരവുമാക്കുകയോ ചെയ്യുന്നതിനാൽ മോശം ശീലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അവസാനത്തെ പോയിന്റായ കൊമ്പിലെ മോശം ശീലത്തെ കൊമ്പിലെ ശീലം തന്നെ ഇല്ലാതാക്കുന്നു ഇതിനാൽ ഞാൻ ഈ പ്രഭാഷണത്തിൽ മുമ്പത്തെ പ്രഭാഷണം അവസാനിപ്പിച്ചു ഇത് എങ്ങനെ എന്ന് നോക്കാം ശീലങ്ങളുടെ ചക്രം ശരിയാണെന്ന് കണ്ടെത്തി നിങ്ങൾ എങ്ങനെ കുടുങ്ങുന്നു എന്നെ നോക്കുന്നതിന് മുമ്പ് ശീലത്തിന്റെ രസകരമായ ചില വശങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ അത് സൂക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കുമ്പോൾ ആ മനസ്സ് ആദ്യം എല്ലാം ശീലമാണെന്ന് മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ സാഹിത്യത്തിനുള്ള പ്രശസ്ത നോബൽ സമ്മാന ജേതാവായ സാമുവൽ ബെക്കറ്റ് തൻറെ നാടകത്തിൽ അദ്ദേഹത്തിനായി നൊബേൽ സമ്മാനം നേടിയ ഗോഡോട്ടിനായി കാത്തിരിക്കുന്നത് വളരെ രസകരമായ ഒരു പ്രസ്താവന നൽകുന്നു ശീലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു എല്ലാം ശീലമാണ് തുടർന്ന് ആ ശീലമാണ് ആ ബാലസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നു നായയെ അതിന്റെ ഛർദ്ദിയിലേക്ക് ചങ്ങലയിട്ട് പിന്നെ അത് ശ്വസിക്കുന്നത് ശീലമാണോ ജീവിതം ഒരു ശീലമാണ് അതിനാൽ ശീലം ശൃംഖലയാണ് ശരി അതിനാൽ ഈ നായ അത് ഒഴിവാക്കേണ്ട സമയമാണിത് ഇത് വളരെ ശക്തമായ ഒരു ശൃംഖലയാണ് നായ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒഴിവാക്കുകയും പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്യുന്നതിനാൽ കാലക്രമേണ അത് ഒഴിവാക്കപ്പെടുന്നു അതിന് നീങ്ങാൻ കഴിയുന്നില്ല തുടർന്ന് അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു അതിനാൽ ശീലം പ്രത്യേകിച്ച് മോശം ശീലം അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിലും ശ്വസിക്കുന്നത് പോലും നമുക്ക് ഒരുതരം ശീലമാണെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ അത് മനസിലാക്കുകയും ഭാവി സ്വീകരിക്കുകയും ചെയ്താൽ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആ ശീലമാണ് നിങ്ങൾ കണ്ടെത്തിയ കഠിനാധ്വാനമാണ് ശീലമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ആഹ് എന്ന നോവലും ഉണ്ട് നായകൻ സ്നേഹത്തോടെ വിളിക്കുന്ന രസകരമായ ഒരു കഥാപാത്രമുള്ള റേസ് എച്ച് ലാറി ഇപ്പോൾ ഈ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ആഖ്യാതാവ് പറയുന്നു ലാറിയുടെ സ്വഭാവത്തിൻറെ കാര്യത്തിൽ ഒരു കാര്യം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു എവിടെയെങ്കിലും ഒരു സമയത്ത് ലൈബ്രറിയിൽ ലാറി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടത് എന്തായിരുന്നു എന്നിട്ട് അവൻ പുറത്തേക്ക് പോയി അതായത് ആഖ്യാതാവ് കുറച്ച് ഷോപ്പിംഗിനായി പുറത്തുപോയി ഭക്ഷണവും അഞ്ച് മണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയ ലാറി അതേ സ്ഥലത്ത് ഇരുന്ന് നോവൽ വായിക്കുകയായിരുന്നു പൂർണ്ണമായും മെലിഞ്ഞ അസ്വസ്ഥതകളൊന്നുമില്ലാതെ അതേ ഭാവം പൂർത്തിയാക്കാൻ അദ്ദേഹം മുകളിലായിരുന്നു അദ്ദേഹം ആ നോവൽ വായിക്കണം അതിനാൽ അതിന്റെ ഗുണനിലവാരം മറ്റാരെയും പോലെ എഴുത്തുകാരനെ ആകർഷിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു തടസ്സവുമില്ലാതെ അഞ്ച് മണിക്കൂർ ഓട്ടോ സ്ട്രെച്ച് വായിക്കാൻ ആർക്കാണ് കഴിയുക നല്ല ശീലമായ കഠിനാധ്വാനം വായിക്കുന്നതുപോലുള്ള ഏതൊരു ശീലവും ഒരു ശീലമാകുന്നതിന് ചുറ്റുപാടും ഇരുന്ന് വായിക്കുന്നതിനാൽ ഇതെല്ലാം നല്ല ശീലങ്ങളാണ് അതിനാൽ മോശം ശീലത്തിന്റെ കാര്യത്തിൽ അലസതയാണ് രൂപംകൊണ്ട അലസത ഒരു പൊതു ജോലി പോലും ചെയ്യുന്നതിലുള്ള പൊതുവായ വെറുപ്പ് മാത്രമാണ് രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലുള്ള അനിഷ്ടങ്ങൾ അങ്ങനെ അലസതയുടെ ഏതെങ്കിലും ഭാഗം നിങ്ങൾ സ്ഥിരോത്സാഹം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ജോലി ഒരു ശീലമാണ് അതിനാൽ എന്തെങ്കിലും തുടരാൻ ഉപേക്ഷിക്കുക എന്നതാണ് നിങ്ങളോട് പോരാടാൻ അവസാനം വരെ എത്താൻ വിജയിക്കുന്നു പലപ്പോഴും അത് അവസാനമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വളരെ നിരുത്സാഹവും നിങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യവും അനുഭവപ്പെടുന്ന നിമിഷം വളരെ അപ്രതിരോധ്യമായി തോന്നുന്നു അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ നിങ്ങൾ അത് വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നു ഒരു ശീലമുണ്ട് അപ്പോൾ നിങ്ങൾ അത് ഉപേക്ഷിക്കുകയല്ല സ്വയം ഉപേക്ഷിക്കുന്നത് ഒരു ശീലമാണ് പൊതുവായി സംസാരിക്കുന്ന രണ്ട് ആൺകുട്ടികൾ നൽകാനും സംസാരിക്കാനും ഭയപ്പെടുന്ന ചില ഉദാഹരണങ്ങൾ എടുക്കുക ആ ഭയത്തെ അഭിസംബോധന ചെയ്യുമെന്ന് ഒരാൾ തീരുമാനിക്കുന്നു തുടർന്ന് അദ്ദേഹം സംസാരിക്കും അങ്ങനെ അദ്ദേഹം സഹിഷ്ണുത പുലർത്തുന്നു തുടർന്ന് അവൻ വളരെ പ്രശസ്തനായ പ്രഭാഷകനായി മാറുന്നു മറ്റേയാൾ വളരെ ചെറിയ ക്ലാസ് പ്രവർത്തനം പോലും അദ്ദേഹം തയ്യാറാക്കിയ രണ്ട് മിനിറ്റ് പ്രഭാഷണം നൽകിയതിന് അദ്ദേഹം സമഗ്രനായിരുന്നു പക്ഷേ പോകാൻ അദ്ദേഹം ഭയപ്പെട്ടു സ്റ്റേജ് ഭയം കാരണം അദ്ദേഹം അത് ഉപേക്ഷിക്കുക മാത്രമാണ് ചെയ്തത് അദ്ദേഹം ഒരിക്കലും പരസ്യമായി ഒരു പ്രഭാഷണവും നൽകിയില്ല ആൾക്കൂട്ടത്തിൽ ആളുകളോട് സംസാരിക്കാൻ അവൻ ഭയപ്പെട്ടു പതുക്കെ അവൻ കൂടുതൽ അകത്തേക്ക് പോയി തുടർന്ന് തനിക്ക് തുടരാൻ കഴിയാത്ത ഒരു കമ്പനിയിലെ ഒരു വലിയ മാനേജർ പോലും അദ്ദേഹം ഉപേക്ഷിക്കാൻ തുടങ്ങി അതിനാൽ ഉപേക്ഷിക്കുന്നത് നിങ്ങൾ തുടരുകയും തുടർന്ന് വിളിക്കുകയും ചെയ്താൽ നിങ്ങൾ അത് ഉപേക്ഷിക്കുന്ന ശീലമാണ് വിജയം നിലനിർത്തുന്നതിനുപകരം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ശീലമാണ് വികസിപ്പിക്കുക തുടർന്ന് വരുന്ന പ്രഭാഷണങ്ങളിൽ ഞാൻ എങ്ങനെ തകർക്കാമെന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഈ മോശം ശീലവും വിജയമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ വിജയത്തിന്റെ ഈ ശീലം എങ്ങനെ വളർത്താം പരാജയം പോലും നിങ്ങൾ നിലനിർത്തുന്ന ശീലം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം രൂപീകരിക്കുകയും നിങ്ങൾ അത് തകർക്കുകയും പുറത്തേക്ക് വരികയും തുടർന്ന് ഈ ഭാഗത്ത് ചേരുകയും വിജയിക്കുകയും വേണം ഒരു ശീലത്തിൻറെ മികവ് എന്നത് അത് വികസിപ്പിച്ചെടുക്കുകയും പിന്നീട് അത് ഒരു ശീലമാക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണ് അതുപോലെ തന്നെ മാധ്യമങ്ങളും കോർ ടിക് അതിനാൽ ശരാശരി പ്രകടനമാണ് അതിനാൽ ഞാൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മതിയാകുമെന്ന് ചിന്തിക്കുന്നു ശരാശരിയേക്കാളും ശരാശരിയേക്കാളും മുകളിലാണ് ഞാൻ നല്ലവനാകണമെന്നില്ല ഞാൻ മികച്ചവനാകണമെന്നുമില്ല നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞാൻ മികച്ചവനാകണമെന്നില്ല അതായത് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ ആഴ്ച പ്രഭാഷണം ആരംഭിച്ചു മികവ് നിർവചിക്കുകയും തുടർന്ന് രൂപീകരിക്കാൻ തിരഞ്ഞെടുക്കുന്ന മികവിന് അനുസൃതമായി നിങ്ങൾ എഴുതുകയും വേണം നല്ല ശീലങ്ങൾ തന്നെ ഒരു ശീലമാണ് അതിനാൽ മോശം ശീലങ്ങൾ രൂപപ്പെടുത്താൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മനസ്സും കൂടിയാണ് എല്ലായ്പ്പോഴും അത് സെറ്റ് ചെയ്യുക എന്നത് മോശം ശീലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് കാരണം നിങ്ങളുടെ ട്യൂൺ നിങ്ങളുടെ ട്യൂണിന് തൃപ്തികരമാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ കാണുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് പ്രമേഹമുണ്ട് പക്ഷേ നിങ്ങൾ ഒരു മധുരം നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ സൂക്ഷിക്കുന്നു നിങ്ങൾ അത് കുഴിച്ചിടാനും കഴിക്കാനും ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അത് കാണിക്കാൻ പോകുന്നു ഊർജ്ജം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്തത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുമോ ഇത് നിങ്ങൾക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടേക്കാം കാരണം നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന ഒരൊറ്റ പ്രശ്നമുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഈ മധുരപലഹാരം നോക്കുകയും അത് കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനാൽ വീണ്ടും നിങ്ങൾ മോശം ശീലങ്ങൾ രൂപപ്പെടുത്താൻ തിരഞ്ഞെടുത്തതിനാൽ അത് തുടരുന്നു വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം ഈ ശീലചക്രം എങ്ങനെ ആദ്യം രൂപപ്പെടുന്നു ഒന്നുകിൽ അത് ഉത്തേജകമാണ് പരിസ്ഥിതിയിൽ നിന്നാണ് വരുന്നത് അത് ഈ പോയിന്റിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നാണ് വരുന്നത് പരിസ്ഥിതി അല്ലെങ്കിൽ ഉത്തേജനം നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു മനസ്സിൽ ശരി അതിനാൽ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായി മനസ്സ് ചിന്തിക്കുന്ന ജനറേറ്ററാണ് ഏജന്റ് ചിന്ത അത് ചെയ്യുന്നതിലൂടെ ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ സന്തുഷ്ടനാകും ഇത് ഒരു നല്ല ശീലത്തിനും മോശം ശീലത്തിനും വേണ്ടിയുള്ളതാണെന്ന് ഓർക്കുക ഒരു ശീലചക്രം മാത്രമാണോ അത് എങ്ങനെ ആരംഭിക്കുന്നു തുടർന്ന് പ്രധാന കാര്യങ്ങൾ ശരിയാണ് എനിക്ക് ഇത് വേണം അതിനാൽ ഞാൻ ചെയ്യും ഇത് ശബ്ദമുണ്ടാക്കുക ഞാൻ അത് വാക്കുകളുടെ രൂപത്തിൽ ഇടും തുടർന്ന് പതുക്കെ ഞാൻ അത് നടപ്പിലാക്കും ചില സന്ദർഭങ്ങളിൽ ഇത് ചില സുഹൃത്തുക്കൾ ഉപേക്ഷിക്കുന്ന പ്രതികരണമായിരിക്കാം ഒരു പ്രവൃത്തിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങുകൾ അതിനാൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കുക പോലും പെട്ടെന്നുള്ള പ്രതികരണം രാത്രിയിൽ മഴ പെയ്യുന്നു അപ്പോൾ എന്റെ മനസ്സ് ചിന്തിക്കുന്നു ഞാൻ ആണെങ്കിൽ മാത്രം ആ ഹോട്ടലിൽ പോയി ഈ സമയത്ത് ആ ചിക്കൻ കഴിക്കുക അത് എത്ര നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചു ശരി ഇപ്പോൾ എങ്ങനെയാണ് ചിന്ത വന്നത് അതിനാൽ ഞാൻ നോക്കുകയായിരുന്നു പിന്നെ ആരോ ഒരു വിഭവം കഴിക്കുകയായിരുന്നു പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ചിക്കൻ വിഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് കാണുന്നു തുടർന്ന് ഞാൻ ആ ഹോട്ടലിൽ പോയാൽ എനിക്ക് അത് ലഭിക്കും അതേ വിഭവം ശരി എന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുന്നു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനോട് നമ്മൾ പോകുമോ എന്ന് ഞാൻ പറയുന്നു അതിനാൽ ഞാൻ അത് ഇടുന്നു വാക്കും പ്രവൃത്തിയും ശരി ഒന്നുകിൽ നമ്മൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു അത് പ്രവർത്തനമാണ് ഇപ്പോൾ അടുത്ത ലെവൽ ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു പ്രതിഫലമോ ശിക്ഷയോ ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചു തുടർന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി അതിനാൽ നിങ്ങൾ വിട്ടയച്ചു നിങ്ങൾക്ക് അത് ലഭിക്കുകയും തുടർന്ന് നിങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെടുകയും ചെയ്താൽ ഭക്ഷണം ദഹിപ്പിക്കാൻ ശിക്ഷ നൽകാം നിങ്ങൾ രാത്രി വൈകി അത് കഴിച്ചതിനാൽ അത് വയറ്റിൽ അസ്വസ്ഥതയുണ്ടാക്കി അടുത്ത ദിവസം മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്ന ഇത് പരസ്പരബന്ധിതമാക്കാൻ കഴിയും ഓ ഞാൻ ഭക്ഷണത്തിന് കേടുപാടുകൾ വരുത്തി എന്നിട്ട് അത് കഴിച്ച ഈ സമയത്ത് ഞാൻ അത് തുടരും അത് കഴിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു അതിനാൽ ഞാൻ ഹോട്ടലിൽ പോകുന്നത് നിർത്തുന്നു അതിനാൽ മനസ്സിന് രണ്ട് വഴികളും ചിന്തിക്കാൻ കഴിയും പിന്നെ ഇത് ഒരു ശീലമായി മാറി അവസാനമായി മഴ പെയ്യുമ്പോൾ ഞാൻ ഈ കോഴി കഴിച്ചു ഈ റെസ്റ്റോറന്റിൽ നിന്ന് മഴ പെയ്യുമ്പോഴെല്ലാം അത് വളരെ രുചിയുള്ളതായിരുന്നു ഇത്തവണ ഞാൻ പോകും ആ പുസ്തകം കാണുമ്പോഴെല്ലാം ഞാൻ അത് ടിവിയിൽ കാണുമ്പോഴെല്ലാം കഴിക്കുന്നു അതിനാൽ എനിക്ക് അത് ഇഷ്ടമാണ് ബ്രാൻഡ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും തുടർന്ന് ആ റെസ്റ്റോറന്റിൽ നിന്ന് മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നു ഓരോ തവണയും വയറുവേദനയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നതായി ഞാൻ കാണുമ്പോഴെല്ലാം ചിന്തിക്കുന്ന മനസ്സിന്റെ രീതി എനിക്ക് ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ധാരാളം അപ്പോയിന്റ്മെന്റുകൾ നഷ്ടപ്പെട്ടു ശരി എനിക്ക് നഷ്ടമായ ചില പ്രധാന പ്രവർത്തനങ്ങൾ ഞാൻ നിർത്തുന്നു ഞാൻ നിയന്ത്രിക്കും അതിനാൽ ഇത് ആവേശത്തോടെ പുറത്ത് കഴിക്കാനുള്ള ഇത്തരത്തിലുള്ള ആഗ്രഹം ഞാൻ ചെയ്യും വളരെ ശ്രദ്ധാലുവായിരിക്കുക ശരി ഞാൻ ഇത് നിർത്തും അതിനാൽ മനസ്സിന് രണ്ട് വഴികളിലും പ്രവർത്തിക്കാൻ കഴിയും നല്ല ശീലങ്ങളുടെ മോശം ശീലങ്ങളുടെ രൂപീകരണം മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ശീലവും ശീലവും രൂപപ്പെട്ടുകഴിഞ്ഞാൽ അടുത്ത ഘട്ടം ബലപ്പെടുത്തലാണ് ശീലം ആവർത്തിക്കുന്നു വീണ്ടും വീണ്ടും അത് നിങ്ങളുടെ സ്വഭാവത്തിലോ വ്യക്തിത്വത്തിലോ ഒരുതരം സൃഷ്ടിയായി മാറുമ്പോൾ ഈ മനുഷ്യൻ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്ക് കോഴി കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ആളുകൾ പറയാൻ തുടങ്ങുന്നു ഈ സ്ഥലത്ത് ഇപ്പോൾ അത് കഥാപാത്ര വ്യക്തിത്വത്തിന്റെ ഭാഗമായിത്തീരുന്നു അടുത്ത ഘട്ടം വീണ്ടും പ്രവർത്തന പ്രതികരണമാണ് ഇപ്പോൾ നിങ്ങൾ തുടരാൻ തുടങ്ങുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തന പ്രതികരണവും തുടർന്ന് ശീല രൂപീകരണത്തിന്റെ കാര്യത്തിലും അത് വിജയത്തിലേക്ക് നയിച്ചേക്കാം അല്ലെങ്കിൽ പരാജയം ഇപ്പോൾ ഞാൻ ചിക്കൻ പോലെയുള്ള ഒരു ലളിതമായ ഉദാഹരണം നൽകി എനിക്ക് ആവശ്യമുള്ള പത്ത് പോയിന്റർ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ചിന്ത പോലുള്ള മറ്റൊരു ഉദാഹരണത്തെക്കുറിച്ച് ചിന്തിക്കുക ആദ്യത്തെ ഒന്നാം നമ്പർ വിദ്യാർത്ഥിയാകാൻ ഇപ്പോൾ സമാനമായത് പരസ്യത്തിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് ഞാൻ കണ്ട ബിരുദദാനച്ചടങ്ങിലും ഞാൻ കഠിനമായി പരിശ്രമിക്കും ഈ ആൾ എങ്ങനെയാണെന്ന് ഞാൻ കണ്ടെത്തും കഠിനാധ്വാനം ചെയ്തു എന്നിട്ട് ഞാൻ ആദരിക്കപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന രീതിയിലോ പ്രവർത്തിക്കും കഠിനാധ്വാനം ചെയ്യുമ്പോൾ എനിക്ക് ഉചിതമായ ഗ്രേഡുകൾ ലഭിക്കുന്നു നല്ല മാർക്ക് ശിക്ഷ ഞാൻ ജോലി ചെയ്യുന്നില്ല അത് മതി അതിനാൽ എനിക്ക് കുറഞ്ഞ മാർക്ക് ലഭിക്കുന്ന ശീലം റീബൂട്ട് ചെയ്യുന്നു അതിനാൽ എനിക്ക് ഈ നല്ല മാർക്ക് ലഭിക്കുന്നു ഈ ശീലം നന്നായി വളർത്തുക ഇപ്പോൾ ഇത് എന്റെ സ്വഭാവ വ്യക്തിത്വമായി മാറുന്നു ഈ വിദ്യാർത്ഥിയാണ് ഏറ്റവും മികച്ച വിദ്യാർത്ഥിയെന്ന് എല്ലാ അധ്യാപകരും പറയുന്നു വളരെ ആത്മാർത്ഥമായ പഠനങ്ങൾ അവൻ സ്വർണ്ണ മെഡലിന് ഒന്നാം സമ്മാനം ലഭിക്കാൻ ഞങ്ങളെ ഇത് ചെയ്യുന്നു ഇപ്പോൾ ആക്ഷൻ പ്രതികരണം വീണ്ടും ഞാൻ തുടരുന്നു അതിനാൽ ഈ കോളേജിൽ മാത്രമല്ല ഞാൻ മറ്റ് കോളേജുകളിലും തുടരുന്നു കൊളാഷ് ഇപ്പോൾ ഞാൻ അതേ തരത്തിലുള്ള കാര്യങ്ങൾ തുടരുകയും എന്നാൽ എനിക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്താൽ അത് വിജയത്തിലേക്ക് നയിക്കുന്നു ഞാൻ കുറച്ച് ജോലി ചെയ്യുന്നതിനാൽ എനിക്ക് അത്രയും ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ കരുതുന്നു ഞാൻ ശിക്ഷയോടെ തുടരുന്നു ചക്രം തുടർന്ന് ഞാൻ വീണ്ടും പരാജയത്തിലെത്തുന്നു അത് അതേ തരത്തിലുള്ള പരാജയ ചിന്തകളെ പരിഗണിക്കുന്നു തുടർന്ന് വിജയം വീണ്ടും എന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ എനിക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുകയാണെങ്കിൽ അത് ഒരു ചക്രമായി മാറുന്നു വീണ്ടും ചിന്ത തുടരും ഞാൻ ഉത്തേജകത്തോട് പ്രതികരിക്കും അതിനാൽ ഇത് നിങ്ങൾ ഒരു നല്ല ശീലമോ മോശം ശീലമോ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ശീലചക്രമാണ് നിങ്ങൾക്ക് എങ്ങനെ തകർക്കാൻ കഴിയുമെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം മോശം ശീലങ്ങളും നിങ്ങൾക്ക് എങ്ങനെ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താം എന്നതും എന്നാൽ ഞാൻ നിങ്ങളോട് മറ്റൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊരു കഥയാണ് പിന്നെ ഈ കഥയിൽ മാറ്റാനുള്ള തീരുമാനം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല ശീലം രൂപപ്പെടുത്താനോ മോശം ശീലം വളർത്താനോ ഉള്ള തീരുമാനം വളരെ നിർണായകമാണ് ഓരോ സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇത് നിർത്താൻ പോകുന്നുവെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷത്തോടെ പൂർണ്ണമായ പരിവർത്തനം സംഭവിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ ജീവിത അധ്യായത്തിൽ ഒരു പുതിയ ഇല ആരംഭിക്കാൻ പോകുന്നു അതിൽ ഞാൻ അറിയപ്പെടും ഇത് വളരെ നല്ല ചിത്രീകരണ ഉദാഹരണമാണ് ആർകെ നാരായണന്മാരിൽ നിന്ന് നമുക്ക് ഒരു ഗൈഡ് ലഭിക്കും എന്റെ പ്രിയപ്പെട്ട നോവലുകളും നിങ്ങളിൽ ചിലരും ഒന്നുകിൽ സിനിമ കണ്ടിരിക്കാം ഏത് ദേവാനന്ദ് നടനാണ് അത് അദ്ദേഹത്തിന് വലിയ ഹിറ്റായി മാറുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നോവൽ വായിക്കാം അല്ലെങ്കിൽ നോവൽ വായിക്കുകയും സിനിമ കാണുകയും ചെയ്യുന്ന പുതുമുഖങ്ങളെപ്പോലെ നിരവധി പേരുണ്ട് ഗൈഡ് എന്ന നോവലിലെ രാജു എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗൈഡാണ് സാധാരണ ഗൈഡുകളെപ്പോലെ താൻ വിഷമിക്കാത്ത നുണകൾ പറയാൻ സാധ്യതയുണ്ട് അവൻ ഇടപെടുന്നത് ഖനിത്തൊഴിലാളികളുടെ വഞ്ചനയാണെങ്കിൽ പോലും അവൻ അത് ചെയ്യുന്നത് ആസ്വദിക്കുന്നു ഖനിത്തൊഴിലാളിയും ഗൈഡിന്റെ ജീവിതത്തിന്റെ ഭാഗമായ എല്ലാം പിന്നെ അവൻ വിഷമിക്കുന്നില്ല അതിനെക്കുറിച്ചും പിന്നെ നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്നതുപോലെ അവൻ ഒരു ടൂറിസ്റ്റുമായി പ്രണയത്തിലാകുന്നു റോസി ആണെങ്കിൽ അവൻ അവളെ വിവാഹം കഴിക്കുന്നു അവൾ ഒരു ക്ലാസിക്കൽ നർത്തകിയാണ് അവൻ അവളെ നൃത്തം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു അവർ ധാരാളം പണം സമ്പാദിക്കുന്നു അവൻ ഇപ്പോൾ സമ്പന്നനാകുന്നു ആ സമയത്ത് അവളോട് ഒപ്പിടാൻ ആവശ്യപ്പെടണം അയാൾക്ക് കുറച്ച് പണം ലഭിക്കുന്നതിനായി ഒരു ചെക്ക് പക്ഷേ അത് ചെയ്യുന്നതിനുപകരം അയാൾ കരുതുന്നു അവൻ സ്വയം അവളുടെ പേരിലുള്ള ചെക്കിൽ ഒപ്പിടുന്നു അതായത് പോലീസ് പിടികൂടുന്ന ഒരു വ്യാജരേഖയിൽ അവൻ ഏർപ്പെടുന്നു അവനും പിന്നെ അവനും ഇപ്പോൾ നോവലിന്റെ തുടക്കത്തിൽ ആ വ്യക്തിക്ക് അയച്ചു പത്രപ്രവർത്തകരിൽ നിന്ന് മടങ്ങിവരുന്നു എന്നിട്ട് അയാൾക്ക് ഒരു കുങ്കുമ തുണി ലഭിക്കുന്നു അയാൾ സ്വയം മൂടുന്നു പിന്നെ അവൻ ഒരു ആൽമരത്തിൻറെ ചുവട്ടിൽ ഇരിക്കുന്നു പിന്നെ അവൻ ഗ്രാമത്തിൻറെ പുറംഭാഗത്താണ് ഗ്രാമത്തലവൻ അവനെ കാണാൻ വരുന്നു തുടർന്ന് താൻ ഒരു വിശുദ്ധനാണെന്ന് അവൻ കരുതുന്നു അവൻ വളരെ കുറച്ച് സംസാരിച്ചതിനാൽ അവൻ ഒരു മകളെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു സുഹൃത്തേ മകളോട് സംസാരിക്കാൻ അവൻ രാജുവിനോട് ആവശ്യപ്പെട്ടു അതിനുശേഷം ഉടൻ തന്നെ അവൾ അത് ഒഴിവാക്കി ഈ മനുഷ്യന് എന്തെങ്കിലും ശക്തിയുണ്ടെന്ന് ഗ്രാമത്തലവൻ കരുതുന്നു ഇപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ തങ്ങളുടേതായ സമപ്രായക്കാർക്ക് അസൂയ തോന്നുന്നു ഒരു സാധുവായി അവൾക്ക് ലഭിക്കുന്ന ജനപ്രീതി തുടർന്ന് അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ അവനെ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് അവർ ഇല്ലാത്ത ഒരു നിമിഷം ആസൂത്രണം ചെയ്തു ആ ഗ്രാമത്തിൽ മഴ പെയ്യുകയും അങ്ങനെ ചില സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ ആളുകളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അവർ ശുദ്ധനായ വ്യക്തി നാൽപ്പത് ദിവസം ഒട്ടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവസാനം മഴ പെയ്യും അവൻ കാൽ കഴുകുകയും പ്രാർത്ഥന പൂർത്തിയാക്കുകയും ചെയ്യുന്ന നാൽപതാമത്തെ ദിവസം ഇപ്പോൾ സാഹചര്യം സമൂഹം അത് സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നു തുടർന്ന് അവൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ വിസമ്മതിക്കുന്നു അവൻ ശ്രമിക്കുന്നു രക്ഷപ്പെടാൻ എന്നാൽ തുടർന്ന് പ്രീസ് വരുന്നു തുടർന്ന് അവർ അവനെ പോകാൻ അനുവദിക്കുന്നില്ല അതിനാൽ അവൻ തിരികെ വരുന്നു തുടർന്ന് അവൻ ക്ഷേത്രത്തിന് സമീപം ഇരിക്കുന്നു ഉപവാസത്തിന്റെ ആദ്യ ദിവസം ആരംഭിക്കുന്നു തുടർന്ന് അവൻ ആഹ് ചെയ്യാൻ ശ്രമിക്കുന്നു പ്രസാദം എടുക്കുക അതിനാൽ മധുരമുള്ള വിഭവം സൂക്ഷിക്കുക തുടർന്ന് തകർന്ന തേങ്ങയിൽ വാഴപ്പഴം ഇടുക അത് സൂക്ഷിച്ചുവെച്ചാൽ അവൻ അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അപ്പോഴേക്കും അവൻ ഒരു പാറ്റയെ സ്ക്രോൾ ചെയ്യുന്നത് കാണുന്നു ആ സ്ഥലത്ത് പിന്നെ അവൻ വെറുപ്പുളവാക്കുന്നതിനെ ഭയപ്പെടുന്നു അത് എടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അടുത്ത ദിവസം വീണ്ടും എലിയിൽ അവൻ ആ വശം നീങ്ങുന്നത് കാണുകയും തുടർന്ന് ഭക്ഷണം കഴിക്കാൻ പോകുകയും ചെയ്യുന്നു ആദ്യത്തെ രണ്ട് ദിവസം ഉപവാസം അവസാനിപ്പിക്കുക കാരണം അയാൾക്ക് വളരെ വിശക്കുന്നു പിന്നെ അയാൾ അങ്ങനെ ചെയ്യുന്നു ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്ങനെയോ യാദൃശ്ചികമായി അവൻ കഴിക്കാൻ ആഗ്രഹിച്ച ഭക്ഷണം യഥാർത്ഥത്തിൽ അകത്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ഈ നിരക്ക് നശിപ്പിച്ചു തുടർന്ന് മൂന്നാം ദിവസം ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങുന്നു അത് നൂറുകണക്കിന് ആയിരങ്ങൾ ആയി മാറുന്നു തുടർന്ന് ഒരു വലിയ ഈ വ്യക്തിയെക്കുറിച്ച് കേട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പതുക്കെ വരാൻ തുടങ്ങുന്നു മൂന്നാം ദിവസം അവൻ കഴിവുള്ളവനാണെന്ന് ഇത്രയധികം ആളുകൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവൻ മാറുന്നില്ല എന്ന അത്ഭുതം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ആ നിമിഷം ചിന്തിച്ച് അവൻ മാറാൻ തീരുമാനിക്കുന്നു ഇക്കാരണത്താൽ എനിക്ക് ഒരുതരം നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് ആളുകൾ എന്നിൽ വിശ്വസിക്കുന്നു ഈ ആളുകൾക്ക് അത്ഭുതം ഉപവാസത്തിലൂടെ എനിക്ക് മഴ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അത് ശ്രമിക്കരുത് അവൻ അത് ശ്രമിക്കുന്നു അവൻ തുടരുന്നു അതിനാൽ അവൻ ആഴ്ചയും ആഴ്ചയും ആകുന്നത് നമ്മൾ കാണുന്നു നോവലിന്റെ അവസാനത്തിൽ അത് വളരെ മനോഹരമായി വളരെ അവ്യക്തമായ രീതിയിൽ അവസാനിക്കുന്നു നദിയിലേക്ക് പോകുക തുടർന്ന് താൻ വിദൂര മേഘമാണെന്ന് അവൻ പറയുന്നു എന്നാൽ അതിൽ ദേവാനന്ദ് ആയിരുന്നതിനാൽ സിനിമ യഥാർത്ഥ മഴ കാണിക്കുന്നു പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് വളരെ ചർച്ചാവിഷയമായ രാജു എന്ന കഥാപാത്രത്തിലെ ഏക പരിവർത്തന പ്രസ്ഥാനമാണിത് സാഹിത്യ കോഴ്സുകളിൽ നിങ്ങൾ രാജുവിനെ ഇപ്പോൾ ഒരു സെനറായോ വിശുദ്ധനായോ കണക്കാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക തീർച്ചയായും ഈ ചോദ്യത്തിൻ്റെ വിജയി ആരാണ് താൻ ഒരു വിശുദ്ധനാണെന്ന് വാദിക്കുന്നത് എന്നതാണ് നിങ്ങൾ സെനറിലേക്കും തുടർന്ന് രാജുവിലേക്കും പരിവർത്തന നിമിഷം നോക്കുന്നതുപോലുള്ള വാദത്തിന്റെ പോയിന്റ് താൻ ശേഖരിച്ച ഏത് മോശം ശീലങ്ങളും മാറ്റാൻ കഴിയുമെന്ന് തീരുമാനിക്കാൻ അത് അവനിൽ സംഭവിക്കുന്നു ആളുകൾക്ക് വളരെയധികം വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം കരുതുന്ന ഒരൊറ്റ സംഭവത്താൽ പൂർണ്ണമായും യഥാർത്ഥത്തിൽ അവർക്ക് ഉള്ള വിശുദ്ധനെ അവർ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവന് കഴിയും അതിനാൽ അവൻ തീരുമാനിക്കുന്നു എന്നിട്ട് അവൻ അവനോടൊപ്പം ആഴത്തിൽ പോകുന്നു തുടർന്ന് ആ തീരുമാനത്തിനായി ആ പ്രതിച്ഛായയിലേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുന്നു മാറ്റം വളരെ നിർണായകമായിത്തീരുന്നതിനാൽ ഒരു സെൻസറിന് പോലും വിശുദ്ധനാകാൻ കഴിയുമെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്നു അവൻ ഒരു സെനറായിരുന്നപ്പോൾ മൃഗം എന്ന് അവൻ മനസ്സിലാക്കുന്നു എന്ന വസ്തുത കാരണം ആ മൃഗം അവനിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈവ് ഭാഗം അതാണ് എന്നാൽ ഒരുപക്ഷേ ദൈവവും അവനിൽ നല്ലവനാണെന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലിലാണ് നോവൽ അവസാനിക്കുന്നത് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതും വളരെ രസകരമായി വെളിപ്പെടുത്തിയതുമായ മാലാഖ ഭാഗം മറ്റൊരു കൂട്ടം സാഹചര്യങ്ങൾ മുമ്പ് വ്യത്യസ്തമായ ഒരു കൂട്ടം സാഹചര്യങ്ങളിൽ നമുക്ക് നൽകുന്നു വീണ്ടും ജയിലിലേക്ക് നയിച്ച എല്ലാ മോശം ശീലങ്ങളും അദ്ദേഹം ശീലിച്ചു അദ്ദേഹം മറ്റൊരു സാഹചര്യത്തിലേക്ക് വന്നു അവനിൽ ദൈവികമായ പങ്കിടൽ അവനിൽ ആത്മീയമായ ഭാഗം അവന് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന ഭാഗം ആ ഏറ്റവും ഉയർന്ന അനുഭവത്തിലെത്താൻ ശ്രമിക്കുന്ന സ്വയം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന് സാധ്യമായിരുന്നതിനാൽ ഒരുപക്ഷേ ആളുകളുടെ കാര്യം മനസ്സിൽ വയ്ക്കുക മൃഗത്തിൻ്റെ അടിസ്ഥാനം അകത്തുള്ളവരാണെന്നും എന്നാൽ ദൈവവും അകത്തുള്ളവനാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ശീലങ്ങൾ അതെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നൽകുകയും പിന്നീട് നിങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് തീർച്ചയായും നിങ്ങൾ കരുതുന്നു നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഈ സാഹചര്യമാണോ ഒരു വ്യക്തിയെ ഒരു സാഹചര്യത്തിലും ഞാൻ സങ്കടപ്പെടുത്തുന്നത് നീക്കത്തിന്റെ അവസാനത്തിൽ രാജുവിന്റെ കാര്യത്തിലെന്നപോലെ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ വെളിപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന ദൈവത്തിൻ്റെ ആത്മീയ ദൈവത്തെ വെളിപ്പെടുത്തുക നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താനുള്ള അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിൽ വീണ്ടും ഉൾച്ചേർന്നിരിക്കുന്ന നല്ല ശീലങ്ങൾ പുറത്തുവരാൻ കഴിയൂ സ്വയം ഇടപെടുകയും തുടർന്ന് സാഹചര്യങ്ങളുമായി ഇടപഴകുകയും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ഇപ്പോൾ ഒരു സമാപന ചിന്തയെന്ന നിലയിൽ ഡോക്ടറുടെ രസകരമായ ഉദ്ധരണി അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കും അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങളാണ് മികവ് പുലർത്തുക എന്നത് ഒരു പ്രവൃത്തിയല്ല മറിച്ച് എനിക്ക് ആവശ്യമുള്ള ഈ ക്രിയാത്മകമായ സമാപന ചിന്ത ഒരു ശീലമാണ് നിങ്ങളെ മികവുറ്റവരാക്കുന്ന ആ ശീലങ്ങൾ വികസിപ്പിക്കാൻ അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ അവിടെയുള്ള ചില തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം മോശം ശീലങ്ങളുടെ കാര്യത്തിലും നമുക്ക് എങ്ങനെ യഥാർത്ഥത്തിൽ മികവ് വികസിപ്പിക്കാൻ ശ്രമിക്കാം എന്നതിലും നല്ല ശീലം വളർത്തിയെടുക്കുക എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി തുടർന്ന് യാത്ര ആസ്വദിക്കാം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും മികവിൽ എത്താൻ ശ്രമിക്കുന്നതിനും ഒരിക്കൽക്കൂടി നന്ദി